നമുക്ക് ക്ലൌഡ് കമ്പ്യൂട്ടിങ്ങിന്റെ ഏതൊക്കെ സമയങ്ങളിൽ ഉപയോഗിക്കാം എന്ന് കണ്ടു പിടിക്കാം ഇനി നമുക്ക് ഒരു സ്ഥാപനമോ ഒരു വ്യക്തിയോ പ്രത്യേകിച്ച് ഒരു സ്ഥാപനം ക്ലൌഡിലേക്ക് പൂർണ്ണമായോ ഭാഗികമായോ മാറുകയാണെങ്കിൽ അവർ എന്തൊക്കെ കാര്യങ്ങൾ ആണ് മനസ്സിൽ വയ്ക്കേണ്ടത് എന്ന് നോക്കാം നമ്മൾ എസ് എൽ എ യെ കുറിച്ചു കണ്ടു ക്ലൌഡിനുള്ള ചില പ്രശ്നങ്ങളും പരിമിതികളും കണ്ടു അതെല്ലാം നന്നായി പോകുകയാണെങ്കിൽ ഇത് നമുക്ക് ഉപയൊഗിക്കുവാൻ സാധിക്കുമൊ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ക്ലൌഡിനെ എപ്പൊഴും ഉപയോഗിക്കുവാൻ സാധിക്കുമോ അതോ ചില സമയങ്ങളിൽ മാത്രമാണോ ഉപയോഗിക്കുവാൻ പറ്റുന്നത് എന്നും വ്യാവസായികമായി എന്തൊക്കെ കാര്യങ്ങൾ വേണം നോക്കാൻ എന്നുള്ളതിനെ കുറിച്ചും ഇനി നമുക്ക് നോക്കാം നിങ്ങൾക്ക് ഈ കാര്യങ്ങളിൽ താൽപര്യമുണ്ടെങ്കിൽ ഇത്തരം ജോലികളെ കുറിച്ച് ശ്രദ്ധിക്കുക സാമ്പത്തിക രീതിയിൽ നോക്കണമെങ്കിൽ നമുക്ക് ഇവിടെ ക്ലൌഡിൻറെ വിവിധ തരത്തിൽ ഉള്ള പ്രോപ്പർട്ടികൾ ആണ് ഇത് പൂൾഡ് സ്റ്റാൻഡേർഡ് റിസോഴ്സ്സ്കൾ ഉണ്ടെന്ന് കരുതുക അങ്ങനെ ആണെങ്കിൽ എനിക്ക് ഇതേ സാധനങ്ങളെ തന്നെ ഉപയോഗിക്കാം ഞാൻ ഇപ്പോൾ 10 തൊട്ട് 100 സിസ്റ്റം വാങ്ങിച്ചു വച്ചിട്ടുണ്ട് നമ്മൾ ഇവിടെ കണക്കുകൂട്ടുന്നത് ഏറ്റവും കൂടുതൽ വർക്ക് ലോഡ് വരുന്ന സമയത്തെ കുറിച്ചാണ് പരമോച്യസമയത്ത് ഇവയെല്ലാം വേണ്ടിവരും ഉദാഹരണത്തിന് IIT ഖരഗ്പൂറിൽ ഒരു പ്രത്യേക ഡിപ്പാർട്ട്മെന്റിലെ ലാബ് ആണ് ഞാൻ ഇവിടെ ഓരോരോ സിസ്റ്റത്തെയും നോക്കുകയാണ് അവയുടെ പ്രോസസ്സർ മെമ്മറിയും ഞാൻ പീക്ക് ലോഡ് സമയത്തുള്ളതാണ് നോക്കുക ഇവിടെ ഞാൻ അമിത വലുപ്പമാണ് എടുക്കുന്നത് ഒരു സർവർ എടുത്തില്ല എന്നുണ്ടെങ്കിൽ അപ്പോൾ ഇവിടെ ഏകദേശം 2 4 ജിഗാബൈറ്റ് 2 4 അല്ലെങ്കിൽ 3 ജിഗാബൈറ്റുകൾ കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ഇവിടെ കൂടുതൽ കൊടുക്കുകയാണ് മിക്കവാറും എല്ലാപേരും ഒരു പീക്ക് സമയത്ത് വരണം എന്നില്ല നമ്മൾ അപ്പോൾ ഇവിടെ നോക്കേണ്ടത് ആവശ്യത്തിന് അനുസരിച്ച് നമ്മൾ ഇവിടെ കൊടുക്കുന്നുണ്ടോ എന്നാണ് നമ്മൾ ഒരുപാട് കൊടുക്കുകയാണെങ്കിൽ അവിടെ ചിലവ് കൂടും അതിനനുസരിച്ച് കൈകാര്യം ചെയ്യുവാൻ ഉള്ള കാര്യങ്ങളും ഉണ്ട് ഒരുപാട് ഉപകരണങ്ങൾ വേണ്ടി വരും അങ്ങനെ അങ്ങനെ സാധനങ്ങളുടെ വിലയും കൂടുന്നു ലൊക്കേഷൻ ഇൻഡിപെൻഡൻസ് ആണ് ദാ ഇതൊക്കെയാണ് ബാക്കിയുള്ള ഫാക്ടറുകൾ ഇതു നമ്മളെ പല കാര്യങ്ങളിലേക്ക് നോക്കാൻ സഹായിക്കുന്നു ഇവിടെ മറ്റു രണ്ടു സാമ്പത്തിക ഘടകങ്ങൾ കൂടിയുണ്ട് ഒന്ന് അവശ്യസാധനങ്ങൾക്കുള്ള വില ഞാൻ ഓരോന്നിനും വില ഈടാക്കുകയാണ് ഉദാഹരണത്തിന് വൈദ്യുതി മറ്റൊന്ന് ഓൺ ഡിമാൻഡ് റിസോഴ്സ് ചെയ്യാനോ സാധിക്കും ഇനി നമുക്ക് സാമ്പത്തിക രീതിയിൽ നോക്കാം സ്റ്റാറ്റിസ്റ്റിക്കൽ ആയി നോക്കാം ഇവിടെ ആദ്യം വരുന്നത് എക്കണോമിസ് ഓഫ് സ്കെയിൽ യുടെ വില വരും ഇതു മാത്രമല്ല വേറെ ആളുകളെ വയ്ക്കുന്നതിനും ചെലവ് വരും ചില സാധനങ്ങൾ വാങ്ങിച്ചു കഴിഞ്ഞതിനുശേഷം അവയെ വർഷങ്ങളോളം നന്നായി കൈകാര്യം ചെയ്യുമ്പോൾ അത് വാങ്ങുന്നതിനേക്കാൾ ചിലവ് ഏറി വരും 2 3 വർഷങ്ങൾ കഴിയുമ്പോൾ ഇവിടെ വേറൊരു വലിയ പ്രശ്നം വരും എന്താണെന്ന് വെച്ചാൽ ഏകദേശം അഞ്ചു വർഷങ്ങൾ ആവുമ്പോൾ ഇവ എല്ലാം പഴകും ടെക്നോളജിയും

ഇവിടെ വിചാരിക്കുന്നത് എന്റെ ക്ലാസിലെ എല്ലാ കുട്ടികളും ഇതിൽ രജിസ്റ്റർ ചെയ്യുന്നു എന്നാണ് അപ്പോൾ ഇവിടെ മൾട്ടിപ്ലക്സ്സിംഗ് ഡിമാൻഡ് വരും അത്കാരണം കൂടുതൽ ഉപയോഗം മൾട്ടിപ്ലക്സ്സിംഗ് ഡിമാൻഡ് വന്നത് കാരണം അടുത്ത പ്രാവശ്യം എനിക്ക് കൂടുതൽ നന്നായി ഇത് ചെയ്യാൻ സാധിക്കും പിന്നെ സാധനങ്ങൾ വിതരണം ചെയ്യുന്നതിനുള്ള ചെലവ് കൂട്ടിച്ചേർക്കാത്ത ജോലിയേക്കാൾ കുറവാണ് അത് കൂട്ടിച്ചേർത്ത് ചെയ്ത ജോലി ആണ് എങ്കിൽ ചെറിയ വില ആയിരിക്കും ഇവിടെ പീക്കിൽ ലംഘനം ഉണ്ടായാൽ പിഴ കൊടുക്കേണ്ടിവരും അപ്പോൾ ഇവിടെ നമുക്ക് റവന്യൂവിൽ ഉണ്ടാകുന്ന നഷ്ടം കുറയ്ക്കാം അപ്പോൾ ഇൻഫ്രാസ്ട്രക്ച്ചർ ഉണ്ടാക്കുന്നത് പീക്കിലും ആകാം അല്ലെങ്കിൽ നോൺ പീക്കിലും ആകാം ക്ലൌഡിൽ മാത്രം കണ്ടുവരുന്ന മറ്റൊരു കാര്യം എന്തെന്നാൽ ഇതിലെ കീ എന്ന് വിളിക്കാം നമ്മൾ ഇവിടെ കോവേരിയസിനെക്കുറിച്ചല്ല കോയിഫിഷന്റ് ഓഫ് വേരിയൻസിനെ കുറിച്ചാണ് നോക്കുന്നത് അത് ഒരു മീനിനു അളക്കാൻ വളരെയധികം സഹായിക്കുന്നു അപ്പോൾ അത് വെച്ച് ഇത് നല്ലതാണോ മോശമാണോ എന്ന് നമുക്ക് അളക്കാൻ സാധിക്കും ഇതിലെ മീനുകൾ വളരെ വ്യത്യാസമുള്ളതാണെങ്കിലും നമുക്ക് അത് വെച്ച് ഡേറ്റാ സീരീസിനെ താരതമ്യം ചെയ്യാൻ പറ്റും 2 ഡേറ്റ സീരിയസുകളുടെ സ്വഭാവം എന്താണ് എന്ന് ഉള്ളത് സിവി നിന്ന് കിട്ടുക എന്നുള്ളതിനെ കുറിച്ച് ഇത് താരതമ്യം ചെയ്ത് പറഞ്ഞുതരുന്നു അപ്പോൾ ഈ cv നമുക്ക് ഇവ താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ എന്തു മാത്രം അപകട സാധ്യതകളാണ് ഇവക്ക് ഉള്ളതെന്നും എത്ര മാത്രം പണം ആണ് ഒരു നിക്ഷേപത്തിന് കൊടുത്തു കഴിഞ്ഞാൽ തിരിച്ചു കിട്ടുക എന്നുള്ളത്തിനെ കുറിച്ചും ഉള്ള കാര്യങ്ങൾ പറഞ്ഞു തരുന്നു നമ്മൾ എത്രമാത്രം അപകടത്തിലേക്ക് ആണ് പോകുന്നത് എന്നും പറഞ്ഞു തരുന്നു ഇവിടെ നമ്മൾ നമ്മുടെ സ്ഥാപനത്തിന്റെ കാര്യങ്ങൾ കൊടുക്കുന്നത് ഒരു അപകട സാധ്യതയുള്ള കാര്യമാണ് ഇൻഫ്രാസ്ട്രക്ച്ചർ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അത് ഒരു അപകട സാധ്യത ഉള്ള കാര്യമാണ് അപ്പോൾ ഇവിടെ ഇൻഫ്രാസ്ട്രക്ച്ചറിനെ പറ്റി മാത്രമല്ല പറയുന്നത് ക്ലൌഡ് തരുന്ന എല്ലാ സർവീസുകളെയും കുറിച്ച് ആണ് സർവീസ് നേരെ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ എന്തു മാത്രം അപകട സാധ്യത ആണ് ഉണ്ടാകുക ചുരുക്കി പറഞ്ഞാൽ സ്റ്റാൻടെഡ് ടീവിയേഷൻ ഭാഗം മീൻ എന്ന റേഷ്യോ എത്രമാത്രം ചെറുതാകുന്നോ അത്രയും വലിയ റിസ്ക് റിട്ടേൺ ട്രേഡ് ഓഫ് റൈറ്റ് ആയിരിക്കും നമുക്ക് കിട്ടുക അതായത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ നിർവിഘ്നം ആയി കിട്ടും അപ്പോൾ ഇവിടെ മൃദുത്തം അളക്കുന്ന കാര്യമാണ് നടക്കുന്നത് ലോഡിൽ ലോഡിൽ വ്യത്യാസം വരികയോ ആണെങ്കിൽ ഇതിനെ അളക്കുവാൻ പ്രയാസമായിരിക്കും ഇത് മൃദുവായിരുന്നാൽ മാത്രമാണ് ഇതിനെ നന്നായി ചെയ്യുവാൻ പറ്റുക കോയഫിഷന്റ ഓഫ് വേരിയെൻഷനും വേരിയെൻസും ഒന്നുപൊലെ അല്ല നമ്മൾ ഇവിടെ സ്റ്റാന്റേഡ് ഡീവിയേഷൻ ഭാഗം യഥാർത്ഥ വിലയുടെ റേഷ്യോ ആണ് നോക്കുന്നത് ഒരു സ്റ്റാൻഡേർഡ് ഡീവിയേഷന് സ്മൂത്തായിട്ടുള്ള കർവ്വും വലിയ മീനും കൊടുക്കുകയാണ് അതായത് സിഗ്മ ഭാഗം മ്യൂ ഈ വലിയ മീൻ കിട്ടുകയാണെങ്കിൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷന് വലിയ വ്യത്യാസം ഉണ്ടാവുകയില്ല അതുപോലെതന്നെ ഒരു മീനിന് ചെറിയ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണെങ്കിൽ അതും നമ്മുടെ നിയന്ത്രണത്തിൽ നിൽക്കും സ്മൂത്ത്നെസ്സ് കൊണ്ടുള്ള ഗുണം എന്താണെന്നുവെച്ചാൽ വലിയ വ്യത്യാസം ഉള്ള ഡിമാൻഡിൽ നമുക്ക് ചെറിയ യൂട്ടിലൈസേഷൻ ആക്കാൻ പറ്റും ഇവിടെ ഞാൻ സർവീസ് പ്രൊവൈഡർ ആണെന്ന് വയ്ക്കുക എൻറെ കയ്യിൽ 100 സിസ്റ്റം ഉണ്ട് അതാണ് എന്റെ നട്ടെല്ല് എനിക്കറിയാം ഡിമാന്റ് എന്നത് സ്മൂത്ത് ആയിട്ടാണ് വരിക എന്ന് അങ്ങനെ വരുമ്പോൾ എനിക്ക് ഇത് കൈകാര്യം ചെയ്യുവാൻ കുറച്ചു കൂടി എളുപ്പമാണ് എന്റെ കൈയിൽ ഇപ്പോൾ എൻ ആയിട്ട് നിൽക്കുകയാണെങ്കിൽ എനിക്ക് കുറച്ച് എളുപ്പമായിരിക്കും ചെയ്യാൻ അതേ സമയം 100 പിന്നെ 10 അങ്ങനെ അങ്ങനെ മാറുകയാണെങ്കിൽ എനിക്ക് ബുദ്ധിമുട്ട് ആയിരിക്കും ഉദാഹരണത്തിന് ഒരു കടക്കാരന്റെ ദിവസേനയുള്ള കാര്യങ്ങൾ നോക്കാം അവിടെ സാധനങ്ങൾ എടുത്തു വയ്ക്കുന്നത് ആവശ്യകത അനുസരിച്ചായിരിക്കും ആവശ്യകത ഏകദേശം മൃദു ആയിരിക്കാം തിങ്കളാഴ്ചയിലേയും ചൊവ്വാഴ്ചയിലേയും വാരാന്ത്യങ്ങളിലേയും എല്ലാം ആവശ്യകതയിൽ വ്യത്യാസം ഉണ്ടാകാം പക്ഷേ അയാൾക്ക് ഒരു ഏകദേശ ധാരണ ഉണ്ടാകും എങ്ങനെ ആയിരിക്കും വരിക എന്ന് ഇനി അങ്ങനെ അല്ല എല്ലാം മാറി മാറി ആണ് വരുന്നതെങ്കിൽ സാധനങ്ങൾ എടുത്തു വയ്ക്കുവാൻ അയാൾക്ക് ബുദ്ധിമുട്ടായിരിക്കും അതേ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെയും നടക്കുന്നത് ഇനി ഞാൻ ഇവിടെ പല സോഴ്സുകളിൽ നിന്നുള്ള ഡിമാൻഡിനെ മൾട്ടിപ്ളക്സ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് കോയിഫിഷന്റ് ഓഫ് വേരിയേഷനെ കുറയ്ക്കാൻ സാധിക്കും എനിക്ക് പറയാൻ സാധിക്കില്ല ഏതൊക്കെ തരത്തിലുള്ള സോഴ്സുകൾ ആണ് വരുന്നത് എന്ന് പക്ഷേ ഞാൻ ഇവിടെ പല സോഴ്സുകളുടെയും പലതരത്തിലുള്ള ഡിമാൻഡുകളെ മൾട്ടിപ്ലക്സ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ കുറച്ചുകൂടി സ്മൂത്ത് ആയിട്ടുള്ള CV എനിക്ക് കിട്ടും എല്ലാ ഡിമാൻഡും പരമോച്ചസ്ഥാനത്തേക്ക് എപ്പോഴും പോകാറില്ല അവ താഴേക്കും വരും പക്ഷേ ഇവിടെ ഇപ്പോൾ മൾട്ടിപ്ലക്സ് ചെയ്യണം ദാ ഇവിടെ x1 x2 xn എന്നതെല്ലാം സ്വതന്ത്രമായ പല വേരിയബിളുകളാണ് അവ ഡിമാൻഡ് ഐഡന്റിക്കൽ സ്റ്റാൻഡേർഡുകൾ ആണ് അവയെല്ലാം സ്വതന്ത്രരാണ് പക്ഷേ അവക്ക് ഒരു പോലത്തെ സിഗ്മയും മ്യൂവും ഉണ്ട് ഈ ഡിമാൻഡുകളെയെല്ലാം ഞാൻ കൂട്ടി വയ്ക്കുകയാണെങ്കിൽ എനിക്ക് മീൻ nമ്യൂ കിട്ടും വേരിയൻസ് n വർഗ്ഗം സിഗ്മ കിട്ടും ഇനി കോയിഫിഷന്റ് ഓഫ് വേരിയസിനെ നമ്മൾ കണക്ക് കൂടുകയാണെങ്കിൽ അത് ഒന്ന് ഭാഗം മൂലവർഗ്ഗം എൻ ഇത് മൊത്തം ഗുണം സിവി എന്ന് കിട്ടും ഇനി ഞാൻ n നെ കൂട്ടുകയാണെങ്കിൽ മൾട്ടിപ്ലക്സ് ചെയ്യുകയാണെങ്കിൽ 1n കുറയും അപ്പോൾ ഇവിടെ സ്മൂത്ത്നെസ്സ്കൂടും ഈ കോയിഫിഷന്റ് ഓഫ് വേരിയേഷൻ കുറച്ചുകൂടി നല്ല സ്മൂത്തായിട്ടുള്ള കർവ് തരും അപ്പോൾ n എന്ന സ്വതന്ത്രമായ ഡിമാൻഡ് നമ്മൾ കൂട്ടുകയാണെങ്കിൽ സിവി കുറയും അത് ഒന്ന് ഭാഗം മൂലവർഗ്ഗം എൻ എന്നതിനെ അടിസ്ഥാനമാക്കിയായിരിക്കും കുറയുക അത് കുറച്ചുകൂടി സ്മൂത്ത് ആയിട്ട് വരികയും ചെയ്യും റിസോർസിൽ വരുന്ന അനാവശ്യമായ പെനാൽറ്റി കുറയുകയും ചെയ്യും അപ്പോൾ ഇതിനെ ഇങ്ങനെ മൃദുവാക്കി കഴിഞ്ഞാൽ എനിക്ക് ഒരുപാട് റിസോഴ്സുംകളെ പുറകിൽ വയ്ക്കേണ്ട ആവശ്യമില്ല അതു കുറക്കുവാൻ സാധിക്കും അല്ലെങ്കിൽ എനിക്ക് അറിയുവാൻ പറ്റില്ല എത്ര മാത്രമാണ് ഡിമാന്റ് വരുന്നത് എന്ന് അത് 10 ആണോ 100 ആണോ എന്ന് അങ്ങനെ അങ്ങനെ മാറാം അങ്ങനെ വരുമ്പോൾ എനിക്ക് 100 യൂണിറ്റുകൾ പിറകിൽ വക്കേണ്ടിവരും 100 വർക്ക് ലോഡുകൾ ഒരുമിച്ചു വക്കുകയും ചെയ്യേണ്ടിവരും ഇത് ഇപ്പോൾ അങ്ങനെ ചെയ്യാത്തതു കൊണ്ട് പിഴ ഏകദേശം 10 കുറയുന്നു ഒന്ന് ഭാഗം റൂട്ട് എന്നത് 10 ആണ് അപ്പോൾ ഇത് ഏകദേശം 10 നു താഴേക്ക് കൊണ്ടു വരുന്നു അപ്പോൾ ഒരുപാട് റിസ്സോഴ്സുകളെ ഒരുമിച്ചു കൊണ്ടുവരുമ്പോൾ എനിക്ക് ലോഡ് കുറക്കുവാൻ സാധിക്കുന്നു ഇനി പലതരത്തിലുള്ള വർക്ക് ലോഡുകൾ എന്താണ് നോൺ നെഗറ്റീവ് കോറിലേഷൻ ഡിമാൻഡുകൾ ഉണ്ട് അതിലേക്ക് വേണ്ടിയുള്ള ഉപഭോക്താക്കളെ ഞാൻ തിരഞ്ഞെടുക്കുന്നു ചിലർ പകൽ സമയത്തായിരിക്കും കർമ്മോദ്യുക്തമായിരിക്കുക ചിലർ രാത്രിയിൽ ആയിരിക്കും കർമ്മോദ്യുക്തമായിരിക്കുക ആയിരിക്കുക അപ്പോൾ ഇത് അങ്ങൊട്ടും ഇങ്ങോട്ടും പകരം വക്കുകയാണ് അല്ലെ ഇപ്പോൾ രണ്ടു ഭാഗത്ത് ഉള്ളവരും ഒരേ സമയത്താണ് ജൊലി ചെയ്യുന്നത് എങ്കിൽ ഈ പീക്ക് ഒരുപാട് ഉയരത്തിൽ ആയിരിക്കും പക്ഷെ ഇവിടെ നെഗറ്റീവ് ഡിമാന്റ് സമയം തിരഞ്ഞെടുത്തത് കൊണ്ട് എനിക്ക് ഈ ഇൻഫ്രാസ്ട്രക്ച്ചറിനെ കൈകാര്യം ചെയ്യാൻ സാധിച്ചു അതുകൊണ്ടാണ് കസ്റ്റമറിനെ തിരഞ്ഞെടുക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായി മാറിയത് എന്തൊക്കെ കാര്യങ്ങൾ ആണ് നമ്മൾ ഈ കസ്റ്റമറിനെ തിരഞ്ഞെടുക്കുമ്പോൾ നോക്കേണ്ടത് അവ പരസ്പരം ബന്ധപ്പെട്ടവയാണ് പരസ്പര ബന്ധമുള്ള ഡിമാന്റ് ഉണ്ടെങ്കിൽ അവയെ നമുക്ക് ഒരുമിച്ചു വക്കാം ഇവിടെ അഗ്രിഗെറ്റ് ഡിമാന്റ് എന്നത് എൻ ഗുണം x ആകുന്നു വേരിയൻസ് എന്നത് വർഗം എൻ ഗുണം വർഗം സിഗ്മ x ആകുന്നു മീൻ എന്നത് എൻ ഗുണം മ്യൂ ആകുന്നു സ്റ്റാന്റേഡ് ഡീവിയെഷൻ എൻ ഗുണം സിഗ്മ X ആകുന്നു കോയിഫിഷന്റ് ഓഫ് വേരിയേഷൻ അതു പോലെ ഇരിക്കുന്നു അപ്പോൾ ഇവ എല്ലാം ഈ ഡിമാന്റുകളെയെല്ലാം നന്നായി ബന്ധമുള്ളവയാക്കി ഇത് അതുപോലെ ഇരിക്കും ഇവിടെ മൂന്നാമത് ഒരു പ്രശ്നം വരുന്നത് എന്താണെന്നുവെച്ചാൽ എല്ലാവരും കൂടി ഒരേ സമയത്ത് വന്നു കഴിഞ്ഞാൽ അവിടെ പീക്ക് ഉണ്ടാകും എല്ലാം കൂടി കൂടിച്ചേർന്നുള്ള ഡിമാൻഡ് ആയിരിക്കും വരുക ഉദാഹരണത്തിന് എല്ലാ ക്ലാസ്സുകളും ഒരേ മണിക്കൂറുകളിൽ വന്നാൽ ആ സമയത്തുള്ള ഡിമാൻഡ് വളരെ കൂടുതലായിരിക്കും അപ്പോൾ ഇവിടെ പീക്ക് വരും ആ സമയം നമുക്ക് ഇത് ഒരു പ്രശ്നമാണ് യഥാർത്ഥ ലോകത്തിൽ ഉള്ള പൊതുവായ ഇൻഫ്രാസ്ക്ചർ ഏതൊക്കെയാണ് എന്നുവച്ചാൽ അത് ഒന്ന് കോറിലേറ്റഡ് ഡിമാന്റ് മൂന്നമതൊരാൾ ആണ് ഇതിനെ കൈകാര്യം ചെയ്യുന്നത് അടുത്തത് വാല്യൂ ഓഫ് ലൊക്കേഷൻ ഇൻഡിപെൻഡൻസ് നടക്കുന്നത് ലേറ്റൻസിയും ഒരു വലിയ കാര്യമാണ് മനുഷ്യർ പ്രതികരിക്കുന്നത് 10 മില്ലി സെക്കൻഡ് തൊട്ട് 100 മില്ലി സെക്കൻഡ് വരെ ആയിരിക്കാം അപ്പോൾ ഈ ലേറ്റൻസി എന്നത് ദൂരവുമായി ബന്ധപ്പെടുത്തിയിരിക്കുന്നു ദൂരം കൂടുന്തോറും കൂടുതൽ നെറ്റ്വർക്ക് ലേറ്റൻസി വരുന്നു അതുകാരണം തെറ്റിന്റെ തോത് കൂടുതലായി വരുന്നു ഇത് റൂട്ടിങ്ങ് അൽഗുരിതത്തിനെയും ആയിരുന്നാലും ഒരു കാര്യം ഒരുപാടു നേരം താമസിച്ചാൽ 200 നാനോ സെക്കന്റ് 200 മില്ലി സെക്കന്റ്റ് ഇങ്ങനെയൊക്കെ ആണ് എങ്കിൽ സമ്പർക്കം പുലർത്താൻ വലിയ ബുദ്ധിമുട്ട് ആയിരിക്കും ഇവിടെ അപ്പോൾ ഒരു ആഗോളതലത്തിലുള്ള ഉപഭോക്താവിനെ പിൻതാങ്ങാൻ ഒരു ഡിസ്പേസ്ഡ് സർവീസ് ആർക്കിടെക്ച്ചർ ഉണ്ടാക്കുന്ന ഒരു കുഴപ്പം ആണ് നമ്മൾ ഏതുതരത്തിലുള്ള ഇൻവെസ്റ്റ്മെന്റാണ് ഇവിടെ കൊടുക്കേണ്ടത് നമുക്ക് മറ്റ് കാര്യങ്ങളെ കുറിച്ച് ഒന്ന് പെട്ടെന്ന് നോക്കാം ഇനി നമുക്ക് യൂട്ടിലിറ്റി പ്രൈസിങ്ങിന്റെ മൂല്യം നോക്കാം എങ്ങനെയാണ് ഓരോന്നിനും വില ഈടാക്കുന്നത് എത്ര സാധനങ്ങൾ ആണ് സൂക്ഷിച്ചു വെക്കേണ്ടത് ഞാൻ ക്ലൌഡ് ഉപയോഗിക്കണോ അതോ അടുത്തുള്ള കാര്യങ്ങൾ വെച്ച് തൃപ്തിപ്പെടണോ അപ്പോൾ സ്കെയിലിൻറെ എപ്പോഴും ഗുണം ചെയ്യണമെന്നില്ല ക്ലൌഡ് സർവീസ് എക്കണോമിക് ആവാൻ വേണ്ടി അത് വില കുറയണം എന്നില്ല ഇത് ആവശ്യത്തിന് അനുസരിച്ച് ആണ് ഇരിക്കുന്നത് ഏതുതരത്തിലുള്ള ഡിമാൻഡ് ആണ് വരുന്നത് എന്നുള്ളതിനെ അനുസരിച്ച് ഉദാഹരണത്തിന് ഒരു കാറിനെ എടുക്കാം ഒരു കാർ വാങ്ങിക്കുകയോ ലീസിന് കൊടുക്കുകയോ ചെയ്യുകയാണെങ്കിൽ 500 രൂപ ഒരു ദിവസം വരുന്നു അതേസമയം ആ കാർ വാടകയ്ക്ക് കൊടുക്കുകയാണെങ്കിൽ 5000 രൂപ ഒരു ദിവസം കിട്ടുന്നു അത് എക്കണോമിക്കൽ ആണോ കാർ വാങ്ങിക്കുന്നത് എക്കണോമിക്കൽ ആണ് എന്ന് ഞാൻ കരുതുന്നു പക്ഷേ ഞാനിപ്പോൾ മാസത്തിൽ ഒരിക്കൽ അല്ലെങ്കിൽ രണ്ടു പ്രാവശ്യം വളരെ ദൂരം പോകാൻ ഈ കാർ ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു കാർ വാങ്ങുന്നത് വാടകയ്ക്ക് എടുക്കുന്നതിനേക്കാൾ വില കൂടുതലാണ് പക്ഷേ ഇനി എനിക്ക് കാർ ദിവസേന വേണം എന്നാണെങ്കിൽ അതായത് എന്നും ജോലിസ്ഥലത്തേക്ക് എനിക്ക് ഒരുപാട് ദൂരം പോകണം എന്നുണ്ടെങ്കിൽ ഒരു കാർ വാങ്ങുന്നതായിരിക്കും എക്കണോമിക്കൽ അപ്പോൾ ഏതുതരത്തിലുള്ള ഡിമാൻഡ് ആണ് ഉള്ളത് എന്നത് അനുസരിച്ചായിരിക്കും ഇതു വരിക ഇനി നമുക്ക് കുറിച്ച് ലഘൂകരിച്ച മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ നോക്കാം ഇവിടെ D ആണ് ഇപ്പോൾ ഒരു കാർ നമ്മൾ വാടകയ്ക്ക് കൊടുക്കുകയാണ് അവിടെ അപ്പോൾ 5000 500 ആണ് അതായത് 10 ആണ് യൂട്ടിലിറ്റി ഇവിടെ പ്രീമിയത്തിന്റെ യൂട്ടിലിറ്റി എന്നത് ക്ലൌഡ് സർവീസ് ഭാഗം ബേസ് ലൈൻ സർവീസ് എന്നതാണ് നമ്മുടെ കയ്യിൽ ഇപ്പോൾ യൂട്ടിലിറ്റി ഉണ്ട് വേരിയബിൾ ഡിമാൻഡ് ആയിട്ടുള്ള DT ഉണ്ട് പീക്ക്ഡിമാൻഡ് ആയിട്ടുള്ള P ഉണ്ട് ആവറേജ് ഡിമാൻഡ് ആയിട്ടുള്ള A ഉണ്ട് ബേസ് ലൈൻ യൂണിറ്റ് കോസ്റ്റ് ആയിട്ടുള്ള B ഉണ്ട്ക്ലൌഡ് യൂണിറ്റ് കോസ്റ്റ് ആയിട്ടുള്ള C ഉണ്ട് ഇനി എനിക്ക് യൂട്ടിലിറ്റി പ്രീമിയം കണ്ടുപിടിക്കണം അതിന് C ഭാഗം B കൊടുക്കുന്നു ഇനി എനിക്ക് മൊത്തം ക്ലൌഡിന്റെ വില അറിയണമെന്നുണ്ടെങ്കിൽ UxBxD ചെയ്യണം 0 മുതൽ T വരെ ഇതാണ് മൊത്തത്തിലുള്ള ക്ലൌഡിന്റെ വില ഇനി എനിക്ക് മൊത്തത്തിലുള്ള ബേസ് ലൈൻ സമയത്തിനനുസരിച്ച് ഉള്ളത് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ പി ഡിമാൻഡ് ഗുണം ബേസ് ലൈൻ ഗുണം T എന്ന് കൊടുക്കണം T എന്നത് മൊത്തത്തിലുള്ള ടൈം സ്കെയിൽ ആണ് ഇനി ക്ലൌഡിന് വില കുറവാണെങ്കിൽ CT BT യെക്കാൾ ചെറുത് ആണെങ്കിൽ അതായത് ക്ലൌടിന്റെ വില ബെയ്സ്ലൈനിന്റെ വിലയേക്കാൾ ചെറുത് ആണെങ്കിൽ ദാ നമുക്ക് ഇവിടെ കുറച്ച് ലഘുകരിച്ച രീതിയിൽ നോക്കാം P ഭാഗം A എന്നത് യൂട്ടിലിറ്റി പ്രീമിയത്തെക്കാൾ കൂടുതലാണ് അങ്ങനെ വരുകയാണെങ്കിൽ പീക്ക് വില ഭാഗം ആവറേജ് അതായത് പിക് ഡിമാൻഡ് ഭാഗം ആവറേജ് ഡിമാൻഡ് അത് യൂട്ടിലിറ്റി പ്രീമിയത്തെക്കാൾ കൂടുതലായി വരുകയാണെങ്കിൽ ക്ലൌടിന്റെ വില കുറവായിരിക്കും ഇൻഫ്രാട്രക്ചറിനേയും അതിന്റെ സർവീസിനേയും വച്ച് നോക്കുമ്പോൾ യഥാർത്ഥ ലോകത്തിൽ യൂട്ടിലിറ്റി പ്രൈസിംഗ് കൂടുതൽ ആയിട്ടാണ് വരുന്നത് അതിൽ മാർക്കറ്റ് പ്രൊമോഷൻ ഉണ്ടാകും എന്നത് പീക്ക് ഭാഗം ആവറേജ് ഡിമാൻഡ് എന്നാണ് പക്ഷേ നമ്മൾ മറ്റു കാര്യങ്ങളുടെ വിലയും ഇവിടെ നോക്കണം നേരത്തെ ഉള്ള കണക്കുകൂട്ടലുകളിൽ നമ്മൾ ഇതിനെ കൂട്ടി ഇരുന്നില്ല അവ ഏതൊക്കെയാണ് എന്ന് വെച്ചാൽ നെറ്റ്വർക്കിൻറെ ആക്സസിഎബിലിറ്റിയും നോക്കുന്നത് ഇതൊക്കെ ആണ് വ്യത്യസ്തമായുള്ള ഘടകങ്ങൾ നമുക്ക് മറ്റൊരു കാര്യമായി ഡിമാന്റ് സർവീസിനെ നോക്കാം ഇവിടെ ഒരു ചെറിയ പ്രശ്നം വരുന്നത് എന്താണ് എന്നുവച്ചാൽ നമ്മുടെ സ്വന്തമായ റിസോസ്ഴ്സസ് നമ്മൾ വയ്ക്കുകയാണെങ്കിൽ അവിടെ നമ്മൾ പഴ കൊടുക്കേണ്ടിവരും റിസോഴ്സുകൾ ശരിയായി അത്യാവശ്യ സമയങ്ങളിൽ എത്തിയില്ലാ എന്നുണ്ടെങ്കിൽ ഉദാഹരണത്തിന് ഇപ്പോൾ 100 റിസോഴ്സുകൾ ഉണ്ട് അത് പൂർണമായി ഉപയോഗിച്ചിട്ടില്ലാ എന്നുണ്ടെങ്കിൽ 80 അല്ലെങ്കിൽ 70 ആണ് ഉപയോഗിച്ചത് എന്നുണ്ടെങ്കിൽ എനിക്ക് ബാക്കി വരുന്ന 20 അല്ലെങ്കിൽ 10 അതും അല്ലെങ്കിൽ 30 ശതമാനത്തിന്റെ പിഴ കൊടുക്കേണ്ടി വരും ഒന്നുകിൽ ഈ റിസോഴ്സുകൾ ഉപയാഗിക്കാതിരിക്കുന്നതിനു വേണ്ടിയുള്ള പിഴ കൊടുക്കേണ്ടിവരും അല്ലെങ്കിൽ ശരിയായ രീതിയിൽ ഉള്ള സർവീസ് കൊടുക്കാൻ പറ്റിയില്ല എന്നുള്ളതിന് പിഴ കൊടുക്കേണ്ടിവരും വലിയ കാര്യങ്ങൾ ആവുകയാണെങ്കിൽ എനിക്ക് അവിടെ ശരിയായ സർവീസ് കൊടുക്കുവാൻ സാധിക്കയില്ല പിഴ എന്നത് എങ്ങനെയാണ് ഇനി കണക്കുകൂട്ടുക പിഴ എന്നത് ആവശ്യവുമായി നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ഡിമാൻഡ് ന്യൂനം റിസോഴ്സ് എന്നതിന് നമുക്ക് ഇൻറഗ്രേറ്റ് ആണെങ്കിൽ കാലാനുസൃതമായി സാധനങ്ങൾ കൊടുക്കുന്നത് അംഗീകരിക്കപ്പെടും അതേസമയം ഡിമാൻഡ് നോൺലീനിയർ etആണ് tp എന്നത് ഉറപ്പിച്ച സാധനങ്ങൾ കൊടുക്കാൻ വേണ്ടിയുള്ള ടൈം ഇൻറർവൽ ആണ് R et tp അപ്പോൾ D et പിഴ അപ്പോൾ c etആകുന്നു ഇങ്ങനെ വരുമ്പോൾ പിഴ എക്സ്പോണൻഷ്യൽ ആയിട്ട് കൂടുകയാണ് ചെയ്യുന്നത് അത് മനസ്സിലാക്കാൻ വളരെ ബുദ്ധിമുട്ട് ആയിരിക്കും അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് സാധനങ്ങൾ കൊടുത്ത് ഇത് എങ്ങനെയാണ് വരുന്നത് എന്ന് കണ്ടു പിടിക്കേണ്ടി വരും പക്ഷേ നിങ്ങൾ വളരെ സൂക്ഷിക്കണം ഏതുതരത്തിലുള്ള ആവശ്യമാണ് ഇവിടെ വരുന്നത് എന്നും എന്തിനെയാണ് നമ്മൾ പഠിക്കേണ്ടത് എന്ന് നോക്കണം അതിന് അനുസരിച്ചായിരിക്കണം ഇവിടെ സാധനങ്ങൾ കൊടുക്കേണ്ടത് ഇതെല്ലാം അടിസ്ഥാനമാക്കി ഞാൻ നിങ്ങൾക്ക് ഒരു അസൈൻമെൻറ് തരികയാണ് നിങ്ങൾ അത് ചെയ്തു നോക്കുക സമയം കിട്ടുമ്പോൾ നമുക്ക് ഇതിനെ കുറിച്ച് ചർച്ച ചെയ്യാം ഇവിടെ നോക്കുന്നത് ഒരു ഓർഗനൈസേഷന് 120 യൂണിറ്റുകളുണ്ട് അവിടുത്തെ പീക് കമ്പ്യൂട്ടിംഗ് ഡിമാൻഡ് നോക്കുക ഡിമാൻഡ് എന്നത് സമയത്തിൻറെ ഒരു ഫങ്ക്ഷൻ dt എന്ന്

ഇവിടെ ഡെൽറ്റ എന്നത് താമസത്തെ ആണ് കാണിക്കുന്നത് ഇവിടെ ക്ലൌഡിന് ഒരു സമയത്ത് കൊടുക്കുന്ന ഒരു റിസോഴസിന് വരുന്ന ചിലവ് 0 9 യൂണിറ്റ്സ് ആണ് നമുക്ക് ഇനി ഇവിടെ പിഴ കണക്കാക്കാം നമ്മൾ ഇവിടെ ചില കാര്യങ്ങൾ കരുതിവയ്ക്കുകയാണ് എത്രയായിരിക്കണം സാധനം കൊടുക്കുന്നതിന് വരുന്ന താമസത്തിനുള്ള പിഴ അതു ചിലപ്പോൾ ചില സർവീസുകൾ കൊടുക്കുവാൻ സാധിക്കാത്തിനും ആയിരിക്കാം ഞാൻ നിങ്ങളോട് ഈ ഒരു പ്രോബ്ളം ചെയ്തു നോക്കുവാൻ ആവശ്യപ്പെടുകയാണ് ഇനി അങ്ങോട്ടുള്ള ഏതെങ്കിലും ക്ലാസ്സിൽ നമുക്ക് ഇതിനെ കുറിച്ച് ചർച്ച ചെയ്യാം ഇവിടെവച്ച് ഇന്നത്തെ ക്ലാസ്സ് ഞാൻ അവസാനിപ്പിക്കുകയാണ് നമ്മൾ അപ്പോൾ ക്ലൌഡിന്റെ ഇക്കോണമിയെ കുറിച്ച് ഇവിടെ നോക്കി ഏതൊക്കെ ഘടകങ്ങൾ ആണ് ക്ലൌഡിന്റെ ഇക്കോണമിയെ ബാധിക്കുന്നത് എന്നും നോക്കി